ഈ യൂണിറ്റിലെ അവസാന പ്രഭാഷണത്തിനായി നമ്മൾ ചെയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ അൽഗോരിതംസിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കുകയും അവയുടെ മുകളിലെ നോഡുകൾ എങ്ങനെ കണക്കുകൂട്ടാമെന്ന് നോക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രഭാഷണത്തിൽ ഈ യൂണിറ്റിലെ രണ്ട് അടിസ്ഥാന ക്ലാസ് അൽഗോരിതങ്ങൾ പരിശോധിക്കാം നമ്മൾ ചില ആവർത്തന ഉദാഹരണങ്ങളും ചില ആവർത്തിച്ചുള്ള ഉദാഹരണങ്ങളും നോക്കും ഒരു ആവർത്തന ഉദാഹരണം അടിസ്ഥാനപരമായി ഒരു ലൂപ്പ് ഉള്ള ഒന്നായിരിക്കും ഒരു ചെറിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതി ആവർത്തിച്ച് ചെയ്ത് അതുവഴി വലിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയാണ് ആവർത്തിച്ചുള്ള ഉദാഹരണത്തിലേത് അതിനാൽ ചെറിയ ഇൻപുട്ടിനൊപ്പം നിങ്ങൾ ഒരേ അൽഗോരിതം ആവർത്തിച്ച് പ്രയോഗിക്കണം അതിനാൽ നിങ്ങളുടെ അടിസ്ഥാന പ്രോഗ്രാമിംഗ് കോഴ്സിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട വളരെ സാധാരണമായ ഒരു പ്രശ്നമാണ് നമ്മുടെ ആദ്യ ഉദാഹരണം ഒരു അറയിലെ ഏറ്റവും വലിയ ഘടകം കണ്ടെത്തുക അതിനായി നമ്മൾ അറയിലെ ആദ്യഘടകമാണ് ഏറ്റവും വലുതെന്ന് സങ്കല്പിക്കുന്നു തുടർന്ന് അറയിലെ ബാക്കി ഘടകങ്ങൾ ഓരോന്നായി എടുത്ത് വലിയ ഘടകത്തെക്കാൾ വലുതാണോ എന്ന് പരിശോധിക്കുന്നു നിലവിലുള്ള ഏറ്റവും വലുതിനെക്കാൾ വലുതായ ഒരു ഘടകം എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതുപയോഗിച്ച് ഏറ്റവും വലുതിനെ മാറ്റുന്നു ഈ പ്രക്രിയ അവസാനിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഘടകത്തിന്റെ മൂല്യം ലഭിക്കുന്നു ഈ സൊല്യൂഷനിൽ നമുക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട് നമുക്ക് f1 f2 എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ടെങ്കിൽ f1 f2 എന്നിവയുടെ ഓർഡർ ഓഫ് മാഗ്നിറ്റിയൂഡ് f1 f2 എന്നിവയുടേ പരമാവധി ആണെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഈ ലൂപ്പാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതെന്ന് ഈ സാഹചര്യത്തിൽ വ്യക്തമാണ് അതിനാൽ ഈ ലൂപ്പിന്റെ സങ്കീർണ്ണത വിശകലനം ചെയ്താൽ മതി ഈ ലൂപ്പ് കൃത്യമായി n 1 ഘട്ടങ്ങൾ എടുക്കും അതിനാൽ ഏത് ഇൻപുട്ടും ഏറ്റവും മോശം അവസ്ഥ യാണ് കാരണം ഏറ്റവും വലിയ ഘടകം കണ്ടെത്തുന്നതിന് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ പോകണം അത് എവിടെയാണെന്ന് നമുക്ക് ഒന്നും അനുമാനിക്കാൻ കഴിയില്ല നമ്മൾ ലൂപ്പ് സ്കാൻ ചെയ്യുമ്പോൾ ഓരോ ആവർത്തനത്തിലും കുറഞ്ഞത് ഒരു ഘട്ടമെങ്കിലും ചെയ്യുന്നു അതിനാൽ ഇതാണ് താരതമ്യം ഒരു അടിസ്ഥാന പ്രവർത്തനം ഇത് സംഭവിച്ചേക്കാം അല്ലെങ്കിൽ സംഭവിച്ചേക്കില്ല അതിനാൽ maxval നേക്കാൾ വലുതായ പുതിയ എലമെന്റ് Ai കണ്ടെത്തിയാൽ അസൈൻമെന്റ് സംഭവിക്കുന്നു പക്ഷേ നമ്മൾ കോൺസ്റ്റന്റകളെ അവഗണിക്കുന്നതിനാൽ ഇത് ഓരോ ആവർത്തനത്തിനും ചില സ്ഥിരമായ പ്രവർത്തനങ്ങളായി കണക്കാക്കാം അതിനാൽ നമ്മൾ c തവണ n 1 അടിസ്ഥാന പ്രവർത്തനങ്ങൾ എടുക്കുകയും c 1 എന്നിവ അവഗണിക്കുകയും ചെയ്താൽ മൊത്തത്തിൽ ഈ അൽഗോരിതം linear ആണ് അതായത് ഓർഡർ n അടുത്തതായി നമുക്ക് രണ്ട് നെസ്റ്റഡ് ലൂപ്പു കൾ ഉള്ള ഒരു ഉദാഹരണത്തിലേക്ക് പോകാം ഒരു അറയിലെ എല്ലാ എലമെന്റ്കളും വ്യത്യസ്തങ്ങളാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നുവെന്ന് കരുതുക അതിനായി നമ്മൾ ഓരോ Ai ഉം ഓരോ Aj ഉം താരതമ്യം ചെയ്യണം എപ്പോഴെങ്കിലും Ai ക്ക് തുല്യമായ Aj കണ്ടെത്തിയാൽ ഒന്നിലധികം എലെമെന്റുകൾ തുല്യമാകും അപ്പോൾ തെറ്റെന്നും അത്തരം Ai ഉം Aj ഉം ഇല്ലെങ്കിൽ ശരിയെന്നും പറയണം ഇനി ഇതിനെ ഒപ്ടിമൈസ് ചെയ്യുന്നതിന്ഞാനിപ്പോൾ അറയുടെ ith പൊസിഷനിലാണെങ്കിൽ അതിനു വലതുഭാഗത്തുള്ള എലെമെന്റുകൾ മാത്രം നോക്കിയാൽ മതി അതായത് i1 മുതൽ n 1 വരെ മാത്രമായിരിക്കും നമ്മുടെ j യുടെ റേഞ്ച് i യുടെ റേഞ്ച് 0 മുതൽ n 1 വരെയും ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരേസമയം Ai Aj യും Aj Ai യും താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കാനാകും ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എത്ര തവണ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കുകയാണെങ്കിൽ i 0 ന് തുല്യമാകുമ്പോൾ j 1 മുതൽ n 1 വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ n 1 ആവർത്തനങ്ങളുണ്ട് i 1 ന് തുല്യമാകുമ്പോൾ n 2 ആവർത്തനങ്ങളുണ്ട് ഇങ്ങനെ i താഴേക്ക് പോകുമ്പോൾ i n 2 ന് തുല്യമാകുമ്പോൾ 1 തവണ മാത്രം പ്രവർത്തിക്കും i n 1 ആകുമ്പോൾ പുറത്തുള്ള ലൂപ്പ് അവസാനിക്കും അകത്തുള്ള ലൂപ്പ് പ്രവർത്തിക്കില്ല അതിനാൽ മൊത്തത്തിൽ നമ്മൾ 012 n 2n 1 ആവർത്തനങ്ങളാണ് ചെയ്യുന്നത് i യുടെ ഈ സംഗ്രഹം i യുടെ 1 മുതൽ n 1 വരെ തുല്യമാണ് ഇത് x n2 ആണ് കോൺസ്റ്റന്റുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് വളരെ പരിചിതമായ ആവർത്തനമാണ് ഇത് O ആണ് O എന്നത് തുല്യ വലുപ്പത്തിലുള്ള രണ്ട് നെസ്റ്റഡ് ലൂപ്പുകളല്ല അതായത് i യും j യും 0 മുതൽ n വരെ ആവർത്തിക്കണമെന്നു നിർബന്ധമില്ല ഇവിടെ i 0 മുതൽ n 1 വരെയും j തുല്യ i1 മുതൽ n 1 വരെയും ആണ് പക്ഷേ ഇപ്പോഴും ഈ സംഗ്രഹം 1 2 3 4 മുതൽ n വരെ O ആണ് അതിനാൽ ഇത് ഓർമ്മിക്കുന്നത് ഉപയോഗപ്രദമാണ് അടുത്തത് നെസ്റ്റഡ് ലൂപ്പുകളുടെ മറ്റൊരു ഉദാഹരണമാണ് ഇതിൽ 3 നെസ്റ്റഡ് ലൂപ്പുകളുണ്ട് A B എന്നീ 2 സ്ക്വയർ മാട്രിക്സുകൾ ഗുണിച്ച് C എന്ന മറ്റൊരു മാട്രിക്സിൽ പ്രോഡക്റ്റ് കിട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു നമുക്ക് എല്ലാ Ci j യുടെയും മൂല്യം വേണം ഇതിനായി ആദ്യത്തെ മാട്രിക്സിലെ ith യിലെയും jth കോളത്തിലേയും ഒന്നാമത്തെ നമ്പറുകളുടെ ഗുണനഫലം രണ്ടാമത്തെ നമ്പറുകളുടെ ഗുണനഫലം എന്നിങ്ങനെ എല്ലാ ഗുണനഫലങ്ങളും കണ്ടുപിടിച്ച് അവയുടെ ആകെത്തുക കാണുന്നു അതാണ് ഈ പ്രോഗ്രാം പറയുന്നത് ഇത് ഓരോ റോയും 0 മുതൽ n 1 വരെ പോകുന്നതിനു വേണ്ടിയാണ് അതുപോലെ ഇത് ഓരോ കോളവും 0 മുതൽ n 1 വരെ പോകുന്നതിനു വേണ്ടിയും അതുകൊണ്ടു ഇത് Cij യുടെ ഓരോ പൊസിഷനിലും പോകും ഏറ്റവും അകത്തെ ലൂപ്പ് അതായത് k യുടെ ലൂപ്പ് n തവണയാണ് ആവർത്തിക്കുക അതിനു പുറത്ത് j യുടെയും i യുടെയും 2 ലൂപ്പുകളുണ്ട് ഇവ രണ്ടും n തവണ ആവർത്തിക്കുന്നു അതുകൊണ്ട് ഈ ഉദാഹരണത്തിന്റെ ഓർഡർ n3 ആണ് അതായത് ഇത് O ഉള്ള അൽഗോരിതമാണ് നമ്മുടെ അടുത്ത ഉദാഹരണം ഒരു നെഗറ്റീവ് അല്ലാത്ത നമ്പർ nനെ ബൈനറി യായി എഴുതിയാൽ അതിൽ എത്ര ബിറ്റുകൾ ഉണ്ടാവും എന്ന് കണ്ടെത്തുകയാണ് ഇത് തന്നിരിക്കുന്ന നമ്പറിനെ 0 അഥവാ 1 ലഭിക്കുന്നതുവരെ തുടർച്ചയായി 2 കൊണ്ട് ഹരിക്കുന്നതു പോലെയാണ് ഇതിനായി കൌണ്ട് എന്ന വാരിയബിൾനെ 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്യുന്നു n ന്റെ മൂല്യം 1 നേക്കാൾ കൂടുതലാണെങ്കിൽ കൌണ്ട് നോട് 1 കൂട്ടുന്നു n നെ 2 കൊണ്ട് ഹരിക്കുന്നു ഈ പ്രക്രിയ n 0 അഥവാ 1 ആകുന്നതു വരെ ആവർത്തിക്കുന്നു ഉദാഹരണമായി നമ്മൾ n 9ന് തുല്യമായി എടുക്കുന്നുവെന്നു കരുതുക ലൂപ്പിനു പുറത്ത് count 1 എടുക്കുന്നു ലൂപ്പ് ആവർത്തിക്കുന്നതിനുള്ള നിബന്ധന n 1 എന്നതാണ് ഇത് ഇവിടെ ശരിയായതിനാൽ കൌണ്ട് നോട് 1 കൂട്ടുന്നു n നെ 2 കൊണ്ട് ഹരിക്കുന്നു ഇപ്പോൾ കൌണ്ട് 2 n 9 ഈനിങ്ങനെയാണ് ലൂപ്പിന്റെ നിബന്ധന ശരിയായതിനാൽ അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ കൌണ്ട് 3 ഉം n 2 ഉം ആകുന്നു ലൂപ്പിന്റെ നിബന്ധന വീണ്ടും ശരിതന്നെയായതിനാൽ അത് വീണ്ടും ആവർത്തിക്കും കൌണ്ട് 4 ഉം n 1 ഉം ആകും ഇപ്പോൾ ലൂപ്പിന്റെ നിബന്ധന തെറ്റായതിനാൽ ലൂപ്പ് എക്സിറ്റ് ആവുന്നു കൌണ്ട് ന്റെ മൂല്യമായ 4 ഔട്ട്പുട്ട് ചെയ്യപ്പെടുന്നു അതായത് 9 നെ ബൈനറിയായി എഴുതുമ്പോൾ കിട്ടുന്ന 1001 ലുള്ള അക്കങ്ങളുടെ എണ്ണം 4 ആണ് ഇവിടെ ഈ ലൂപിന്റെ കോംപ്ലെക്സിറ്റി എത്രയാണ് അതെത്ര തവണ ആവർത്തിക്കും ലൂപ്പിന്റെ ആവർത്തനം n ന്റെ വിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു n ന്റെ വില പകുതിയായി കുറഞ്ഞ് കുറഞ്ഞ് 1 ആകുന്നതുവരെ ലൂപ്പ് ആവർത്തിക്കുന്നു n ന്റെ മൂല്യം 1 ലേക്ക് എത്തിക്കുന്നതിനായി അതിനെ എത്രതവണ 2 കൊണ്ട് ഹരിക്കണം ഇത് 1 നെ n ന്റെ മൂല്യത്തിലേക്കു എത്തിക്കുന്നതിനായി 2 കൊണ്ട് ഗണിക്കേണ്ടുന്ന എണ്ണത്തിന് തുല്യമാണ് ഇത് log2 n ന്റെ നിർവചനം തന്നെയാണ് അതായത് 2 ന്റെ എത്രാമത്തെ പവർ ആണ് n ഈ ലൂപ്പ് യഥാർത്ഥത്തിൽ ഓരോ ആവർത്തനത്തിലും n ന്റെ മൂല്യം 1 വീതമല്ല കുറയ്ക്കുന്നത് മറിച്ച് പകുതിയായാണ് നമുക്കിത് log2 n കണക്കാക്കുന്നതിലൂടെ കണ്ടുപിടിക്കാം n n2 n3 log2 n എന്നിങ്ങനെ സമയങ്ങൾ കോംപ്ലക്സിറ്റിയുള്ള ആവർത്തനങ്ങളുള്ള ഉദാഹരങ്ങൾ നമ്മൾ കണ്ടു ഇനി നമുക്കൊരു റെക്കേർസിവ് ഉദാഹരണത്തിലേക്ക് പോകാം ഇവിടെ നമ്മൾ പറയുന്നത് ഒരു അൽഗോരിതമല്ല മരിച്ച ഒരു പസിലാണ് ടവർ ഓഫ് ഹാനോയി എന്നറിയപ്പെടുന്ന ഈ പസിലിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ 3 ടവറുകളുണ്ട് അവയെ നമുക്ക് A B C എന്നിങ്ങനെ വിളിക്കാം നമ്മുടെ ലക്ഷ്യം ഈ n ഡിസ്കുകൾ A യിൽ നിന്നും B ലേക്ക് മാറ്റുക എന്നതാണ് നമുക്ക് ചെയ്യാൻ അനുവാദമില്ലാത്ത കാര്യം ഒരു ചെറിയ ഡിസ്കിനു മുകളിൽ ഒരു വലിയ ഡിസ്ക് വെക്കുക എന്നതാണ് അതിനാൽ ആദ്യത്തെ ഡിസ്ക് ഇവിടേക്ക് മാറ്റുകയാണെങ്കിൽ രണ്ടാമത്തെ ഡിസ്ക് എടുത്ത് അവിടെ നീക്കണം കാരണം ആദ്യത്തെ ഡിസ്കിന് മുകളിൽ രണ്ടാമത്തെ ഡിസ്ക് സ്ഥാപിക്കാൻ കഴിയില്ല ഈ രീതിയിൽ A യിൽ നിന്നും എല്ലാ ഡിസ്ക്കുകളും B ലേക്ക് മാറ്റുക എന്നതാണ് ലക്ഷ്യം അതിനാൽ എല്ലാ ഡിസ്കുകളും ടവർ A യിൽ നിന്ന് ടവർ B യിലേക്ക് മാറ്റുക എന്നതാണ് യഥാർത്ഥ ലക്ഷ്യം ടവർ C യെ ഇടക്കുള്ള ഒരു താത്ക്കാലിക ടവറായി ഉപയോഗിക്കാം നമ്മൾ കണ്ടതുപോലെ ആദ്യത്തെ ഡിസ്ക് Aയിൽ നിന്ന് Bയിലേക്ക് നീക്കുന്നു ഇനി നമുക്ക് മറ്റൊന്നും നീക്കാൻ കഴിയില്ല സമയം 1009 കാണുക അതിനാൽ ഈ ജോലി ചെയ്യുന്നതിന് നമ്മൾ ഒരു തരം താൽക്കാലിക ടവർ ആയി C ഉപയോഗിക്കണം ഇത് വളരെ ക്ലാസിക്കലായ ഒരു പ്രശ്നമാണ് ഒരു റെക്കേർസിവ് സൊല്യൂഷൻ എന്നനിലയിൽ n ഡിസ്കുകളെ ടവർ A യിൽ നിന്ന് ടവർ B യിലേക്ക് മാറ്റുന്നതിനായി ആദ്യം നമുക്ക് ഡിസ്കുകളെ ഒരു ടവറിൽ നിന്ന് മറ്റൊരു ടവറിലേക്ക് മാറ്റാൻ അറിയാമെന്ന് സങ്കൽപ്പിക്കുക അപ്പോൾ n ഡിസ്കുകളെ ടവർ A യിൽ നിന്ന് ടവർ B യിലേക്ക് മാറ്റുന്നതിനായി നമ്മൾ ആദ്യം ഡിസ്കുകളെ ടവർ Bയെ താത്ക്കാലിക ടവരായി ഉപയോഗിച്ചുകൊണ്ട് ടവർ A യിൽ നിന്ന് ടവർ C യിലേക്ക് മാറ്റും ഇനി നമുക്ക് nth ഡിസ്കിനെ ടവർ A യിൽ നിന്ന് ടവർ B യിലേക്ക് മാറ്റാം അതിനുശേഷം ഡിസ്കുകളെ ടവർ A യെ താത്ക്കാലിക ടവരായി ഉപയോഗിച്ചുകൊണ്ട് ടവർ C യിൽ നിന്ന് ടവർ A യിലേക്ക് മാറ്റാൻ കഴിയും അതിനാൽ ഇപ്പോൾ ഞാൻ A യിൽ നിന്ന് C യിലേക്ക് ഡിസ്കുകൾ നീക്കുന്നു തുടർന്ന് ഈ ഡിസ്ക് ഇവിടെ നീക്കുന്നു അതിനാൽ എനിക്ക് ഇപ്പോൾ ഇവിടെ ഡിസ്ക് ഉണ്ട് ഇനി ഇവിടെ ഒന്നും ഇല്ല ഇപ്പോൾ B യിൽ എനിക്ക് ഒരു വലിയ ഡിസ്ക് ഉണ്ട് അതിനാൽ എനിക്ക് അതിൽ എന്തും ഇടാം എനിക്ക് C യിൽ n 1 ഡിസ്കുകൾ ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് ഡിസ്കുകൾ നീക്കാൻ ന് അതേ അൽഗോരിതം പ്രയോഗിക്കുന്നു ഇവിടെ ടവർ A എന്റെ താത്ക്കാലിക ടവരായി ഉപയോഗിക്കുന്നു ഈ രീതിയിൽ ഈ പ്രശനത്തിനു ഉത്തരം കണ്ടെത്താൻ നമ്മൾ ആദ്യം ഡിസ്കുകളെ ടവർ A യിൽ നിന്ന് ടവർ C യിലേക്ക് നീക്കുന്നു ടവർ A യിലുള്ള ഏറ്റാവും വലിയ ഡിസ്കിനെ ടവർ A യിൽ നിന്ന് ടവർ B യിലേക്ക് നീക്കുന്നു അതിനുശേഷം ഡിസ്കുകളെ ടവർ C യിൽ നിന്ന് ടവർ B യിലേക്ക് നീക്കുന്നു ഇനി നമ്മുടെ ചോദ്യം എത്ര തവണ ഈ രീതിയിൽ ഡിസ്കുകളെ മാറ്റണം എന്നതാണ് ഒരു ടവറിൽ നിന്ന് മറ്റൊരു ടവറിലേക്ക് n ഡിസ്കുകൾ മാറ്റേണ്ട നീക്കങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്നതിന് നമ്മൾ M എന്ന് എഴുതുന്നുവെന്ന് കരുതുക അതിനാൽ നമ്മൾ കണ്ടത് n ഡിസ്കുകൾ കൈമാറുന്നതിനായി നമ്മൾ ആദ്യം n 1 ഡിസ്കുകൾ A യിൽ നിന്ന് C ലേക്ക് മാറ്റുന്നു എന്നിട്ട് ഒരു ഡിസ്ക് A ൽ നിന്ന് B ലേക്ക് മാറ്റുകയും തുടർന്ന് n 1 ഡിസ്കുകൾ C ൽ നിന്ന് B ലേക്ക് മാറ്റുകയും ചെയ്യുന്നു അതുകൊണ്ടു ആകെയുള്ള നീക്കങ്ങൾ M 1 M ആണ് ഇത് 2 M 1 ആയി ലളിതമാക്കാൻ കഴിയും M പൊതുവിൽ 2 M 1 ആണ് നമുക്ക് ഒരു ഡിസ്ക് മാത്രമേ മാറ്റാൻ ഉള്ളൂവെങ്കിൽ അത് നമുക്ക് ഒരു സ്റ്റെപ്പിൽ ചെയ്യാൻ കഴിയും അതായത് M എന്നാൽ 1 ആണ് ഇത്തരത്തിൽ M പോലുള്ള ഒരു റെക്കേർസിവ് എക്സ്പ്രഷനെ ചെറിയ വിലകൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നതിനെ റീകറൻസ് എന്നാണു പറയുക അതിനാൽ Mനെ സോൾവ് ചെയ്യാൻ ആവർത്തിച്ചുള്ള സബ്സ്റ്റിട്യൂഷൻ എന്നരീതി ഉപയോഗിക്കാം ഇവിടെ എല്ലാറ്റിനെയും ആവർത്തിച്ചുള്ള സബ്സ്റ്റിട്യൂഷൻ വഴി M എന്ന ടേമിലേക്ക് ചുരുക്കി അവസാനം അവയുടെ വിലകൾ കൂട്ടിച്ചേർക്കുന്ന രീതി ഉപയോഗിക്കാം M എന്നാൽ 2 മടങ്ങ് M 1 ആണ് എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് M ന് സുബ്സ്റ്റിട്യൂഷൻ നൽകലാണ് M നെ നമുക്ക് 2 മടങ്ങ് M1 എഴുതാം കാരണം പൊതുവെ ഏത് M നും നമുക്ക് 2 മടങ്ങ് M 1 എന്നെഴുതാമല്ലോ അതിനാൽ ഇതൊരു പൊതുവായ ഒന്നാണ് അതിനാൽ അത് നമ്മൾ എടുക്കുന്നു ഇവിടെ നമുക്ക് രണ്ട് പദങ്ങൾ ലഭിക്കുന്നു അതിനാൽ ഇതിൽ നിന്നും 22 ഉം n 2 ഉം ലഭിക്കുന്നു തുടർന്ന് നമ്മൾ 2 തവണ 1 എടുക്കുന്നു അത് നമുക്ക് ഈ 2 പ്ലസ് 1 നൽകുന്നു അതിനാൽ ഞങ്ങൾ ഇത് 22 n 2 ആയി വീണ്ടും എഴുതിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഈ പദപ്രയോഗം 2 തവണ M എടുക്കുകയാണെങ്കിൽ അത് 2 മടങ്ങ് M 1 ആകുകയും തുടർന്ന് ഈ 22 1 ആണ് ഈ 22 ഓർക്കുക 4 അതിനാൽ ഇത് നമുക്ക് 4 അകത്ത് ലഭിക്കും കൂടാതെ 22 തവണ 2 23 അതിനാൽ നമുക്ക് 23M 3 22 2 1 ലഭിക്കും ഇപ്പോൾ നമ്മൾ ഇത് k തവണ ചെയ്താൽ 2k M ആയിരിക്കുമെന്ന് കാണാൻ കഴിയും എല്ലായിടത്തും നമുക്ക് ഇത് കിട്ടും ഇത് ഒരേ സംഖ്യയാണ് ഇത് 1 2 4 ആണ് അടുത്ത തവണ ഇത് 1 2 4 8 ആകും ഇത് യഥാർത്ഥത്തിൽ 2k 1 ആണ് ഇത് 23 1 ആണ് ഇത് 22 1 ആണ് അതിനാൽ പൊതുവേ k പ്രവർത്തനങ്ങൾക്ക് ശേഷം നമുക്ക് ഇത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇത് തവണ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് n അതായത് 1 ആണ് അതിനാൽ ഞാൻ ഇത് 2 n 1 സമയം k n 1 ചെയ്താൽ 1 ആകും ഈ ഘടകം n 1 ആണ് അതായത് n 1 1 ആയതിനാൽ എനിക്ക് ഇത് ഇവിടെ നിന്ന് ഒഴിവാക്കാനാകും അതിനാൽ എനിക്ക് 2n 1 2n 1 1 കിട്ടും എന്നാൽ ഇത് മറ്റൊന്നുമല്ല 2 മടങ്ങ് 2n 1 അതായത് 2n അതിനാൽ എനിക്ക് ഇവ 2n ആയി സംയോജിപ്പിക്കാൻ കഴിയും M n M 2n 1 ആണെന്ന് നമുക്കറിയാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പസിൽ പരിഹരിക്കുന്നതിന് എക്സ്പൊനെൻഷ്യൽ എണ്ണം ഘട്ടങ്ങൾ ആവശ്യമാണ് ചില ക്ഷേത്ര ലിഖിതങ്ങളെക്കുറിച്ചുള്ള ക്ലോക്കിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട് അതിൽ ഈ മൂന്നു ടവറുകളും 64 ഡിസ്കുകളുമുണ്ട് 64 ഡിസ്കുകൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റിക്കഴിയുമ്പോഴേക്കും ലോകം അവസാനിക്കുമെന്ന് ഇത് പറയുന്നു അതിനാൽ അവ കൈമാറ്റം ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാകും ഓർക്കുക 230 എന്നത് ഏകദേശം 1 ബില്ല്യൺ ആണെന്ന് നമ്മൾ പറഞ്ഞു അതിനാൽ ഇത് ഒരു വലിയ സമയമാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ശരിക്കും വിഷമിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ചുരുക്കത്തിൽ നമ്മൾ മുമ്പ് പഠിച്ച ആശയങ്ങൾ ഒരു യഥാർത്ഥ അൽഗോരിതത്തിൽ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നത് ചിത്രീകരിക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു ഒരു അൽഗോരിതത്തിന്റെ സങ്കീർണ്ണതയെ എങ്ങനെ വേർതിരിച്ചെടുക്കാം ഒരു ആവർത്തന പ്രോഗ്രാം അടിസ്ഥാനപരമായി ലൂപുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കാരണം അത്തരം പ്രോഗ്രാമുകളുടെ പരമാവധി സമയവും ലൂപ്പുകൾ എടുക്കുന്നതാണ് കൂടുതൽ റെക്കേർസിവ് അൽഗോരിതങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണും പക്ഷേ പ്രോഗ്രാമിന്റെ കോംപ്ലക്സിറ്റി ഒരു റെക്കരൻസ് ആയി പ്രകടിപ്പിക്കുക എന്നതാണ് പ്രധാന ആശയം ആവർത്തിച്ചുള്ള ഫങ്ഷന്റെ പ്രവർത്തനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചെറിയ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ m സ്റ്റെപ്പുകൾ ചെയ്യൂന്നതിനുള്ള സമയം t നമുക്ക് എഴുതാം അതിനാൽ ഹനോയ് ടവറിന്റെ കാര്യത്തിൽ നമുക്ക് n ഉം n 1 ഉം ഉണ്ടായിരുന്നു അതിനാൽ n ഡിസ്കുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് n 1 ഡിസ്കുകൾക്കായി രണ്ടുതവണ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ഇവയിലൊന്നും ചേരാത്ത ഉദാഹരണങ്ങൾ നമ്മൾ തീർച്ചയായും കണ്ടെത്തും അത് നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുന്ന ഒരു ലളിതമായ ലൂപ്പായിരിക്കില്ല തുടർന്ന് നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഓപ്പറേഷനുകൾ കണക്കാക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി ശ്രദ്ധാലുവായിരിക്കണം അതിനാൽ ഒരർത്ഥത്തിൽ യഥാർത്ഥത്തിൽ കാര്യക്ഷമത കണക്കാക്കുന്നത് ശരിക്കും അക്കൌണ്ടിംഗ് പോലെയാണ് അതിനാൽ നിങ്ങൾക്ക് എല്ലാ അടിസ്ഥാന പ്രവർത്തനങ്ങളുടെയും പോക്ക് നിരീക്ഷിക്കാൻ കഴിയും കൂടാതെ അവ മികച്ച രീതിയിൽ ട്രാക്ക് ചെയ്യാൻ അത് ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്യേണ്ടതുണ്ട് അങ്ങനെയായാൽ കാര്യങ്ങളുടെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് ലഭിക്കും